ഇനി നമുക്ക് റേഡിയേഷൻ ബൌണ്ടറി അവസ്ഥകൾ നോക്കാം ഇപ്പോൾ ഞാൻ ആ ഒരു പൊതുതത്ത്വത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടെത്തും അതിനാൽ എനിക്ക് ഒരു പരിധിയില്ലാത്ത മാധ്യമം ഉണ്ടെന്ന് കരുതുക മാക്സ്വെല്ലിന്റെ സമവാക്യത്തിനുള്ള പരിഹാരമാണെന്ന് ഇപ്പോൾ നമുക്കറിയാം അതിനാൽ ഈ അൺബൌണ്ട് മീഡിയം ഹെൽംഹോൾട്ട്സ് സമവാക്യത്തെ പിന്തുടരുന്നു ഇതിനുള്ള പരിഹാരം ഒരു പ്ലെയിൻ വേവ് സൊല്യൂഷൻ ശരിയാണെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് പരിഹാരം എനിക്ക് E എന്നത് E അല്ലാത്ത പരിഹാരമാണ് ഞങ്ങൾ ഇതിനകം ശ്രദ്ധിച്ച സമയത്തെ ആശ്രയിക്കുന്നത് ഞാൻ അവഗണിക്കുകയാണ് അതിനാൽ ഇതാണ് ഇവിടെയുള്ള പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഞാനും ഇതിലേയ്ക്ക് പ്ലഗ് ചെയ്താൽ ഈ ഹെൽംഹോൾട്ട്സ് സമവാക്യത്തിന്റെ പരിഹാരത്തിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് ഞാൻ അർത്ഥമാക്കുന്നത് അത് ഒരേപോലെ ശരിയാണെന്ന് തൃപ്തിപ്പെടുത്തുന്നു എല്ലാവർക്കും ബോധ്യമുണ്ട് ഞാൻ ഡെൽ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ടേമിന് തുല്യമായ ഒരു ഓവർ ഡെറിവേറ്റീവിൽ ഒരു ഓൺ കൂടി മൈനസ് ആയി മാറും ഇവിടെ ഒരു ഓവർ റൈറ്റ് ഉണ്ട് അതിനാൽ അത് റദ്ദാക്കപ്പെടും എനിക്ക് 0 ലഭിക്കും അതിനാൽ ഇതൊരു പരിഹാരമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇനിപ്പറയുന്ന ചോദ്യം ചോദിക്കട്ടെ ഇതും ഒരു പരിഹാരമാണോ അതിനാൽ ഞാൻ ഇതിനെ ഇപ്പോൾ k യുടെ ഫംഗ്ഷൻ ആക്കുന്നതിന് തുല്യമാണ് E എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ വേവ് വെക്ടറിനെ ആശ്രയിക്കാൻ വ്യാപ്തി ഉണ്ടാക്കി ഇത് പ്രവർത്തിക്കുന്നുണ്ടോ അതിനാൽ എനിക്ക് ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നാൽ ഇവിടെ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുമോ എന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ആദ്യത്തെ ടേം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് സ്പേഷ്യൽ നിബന്ധനകൾ മാത്രമായി പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരുമോ അതിനാൽ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ലഭിക്കും എനിക്ക് ഒരു മൈനസ് ലഭിക്കും രണ്ടാമത്തെ ടേമിന്റെ കാര്യമോ അപ്പോൾ അത് റദ്ദാക്കുമോ വിദ്യാർത്ഥി വളരെ ലളിതമായി അതെ അതിനാൽ ആദ്യ ടേം എനിക്ക് ഒരു ചതുരം നൽകാൻ പോകുന്നു ഞാൻ ഈ k എന്ന് എഴുതുന്നു വിദ്യാർത്ഥി k x k y k z വെക്റ്റർ അതിനാൽ ആദ്യ ടേം എനിക്ക് ഒരു നൽകുന്നു രണ്ടാമത്തെ ടേമിന് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി മൈനസ് ജെ സ്ക്വയർ ബൈ അതിനാൽ ഇവിടെയുള്ള ചെറിയ പ്രശ്നം സംയോജനത്തിന്റെ ഒരു വേരിയബിളായും സമവാക്യത്തിലെ സ്ഥിരമായ k ആയും ഞാൻ k ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ അത് ഒരു മോശം ആശയമായിരിക്കാം അതുകൊണ്ട് k ഉപയോഗിക്കാതിരിക്കാൻ ഞാൻ എന്താണ് അനുവദിക്കേണ്ടത് നമുക്ക് ഇതിനെ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് വിളിക്കാം നമുക്ക് ഇതിനെ വിളിക്കാം p എന്ന് പറയാം നമുക്ക് ഇതിനെ p എന്ന് വിളിക്കാം ഇത് ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുമോ അതിനാൽ p യുടെ വ്യത്യസ്ത മൂല്യങ്ങളിലുള്ള ഈ സംയോജനം ഒന്നും ചെയ്യുന്നില്ല അതിനാൽ ഇത് ഒരു പരിഹാരമാണെങ്കിൽ ഇതും ഒരു പരിഹാരമാണ് അപ്പോൾ ഈ പൊതു സമവാക്യത്തിന്റെ വ്യാഖ്യാനം എന്താണ് വിദ്യാർത്ഥി സൂപ്പർപോസിഷൻ വ്യത്യസ്ത തലം തരംഗങ്ങളുടെ സൂപ്പർപോസിഷൻ അതാണ് ശരി ഞാൻ എന്നതിൽ വ്യാപ്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് ഒരു ഫോറിയർ രൂപാന്തര ആശയം പോലെയാണ് വ്യത്യസ്ത വിമാന തരംഗങ്ങളുടെ സൂപ്പർ പൊസിഷൻ ശരിയായി എടുക്കുക അതിനാൽ ശൂന്യമായ സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഏത് തരംഗവും എനിക്ക് വിമാന തരംഗങ്ങളുടെ ശേഖരമായി എഴുതാം എന്നതാണ് ഇതിന് പിന്നിലെ പൊതുവായ ആശയം വിദ്യാർത്ഥി അതിനാൽ ഇത് എല്ലാ വ്യത്യസ്ത സ്പേഷ്യൽ ഫ്രീക്വൻസിയിലും വേർതിരിക്കുന്നത് പോലെയാണ് അതെ സ്പേഷ്യൽ ഫ്രീക്വൻസി ഒമേഗ ടി അല്ല ഇത് സമാനമാണ് വിദ്യാർത്ഥി ചിലത് അവയെ വേർതിരിക്കുന്ന ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നു അവരെ വേർതിരിക്കുന്നത് അതിനാൽ ഈ അതിർത്തി വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിന് ഇത് കൃത്യമായി ആവശ്യമില്ല പക്ഷേ ഇത് ശരിയാക്കുന്നത് ഒരു നല്ല അവബോധമാണ് അതിനാൽ ഞങ്ങൾ ഇത് പശ്ചാത്തലത്തിൽ സൂക്ഷിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഒരു പൊതു ദിശയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ തരംഗത്തിലേക്ക് മടങ്ങാം അതിനാൽ a ൽ നമുക്ക് ഒരു ഏകീകൃത മാധ്യമം പറയാം ഒരു വിമാന തരംഗം ശരിയായി സഞ്ചരിക്കുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് തുല്യം ക്ഷമിക്കണം ക്ഷമിക്കണം അതെ അതിനാൽ ഇത് മൈനസ് ആണ് അതിനാൽ ഇത് മുഴുവൻ വെക്ടറും ശരിയല്ല ഇതാണ് എനിക്ക് ശരി ഇപ്പോൾ H ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ വിദ്യാർത്ഥി H ഒന്നുമില്ല ഇത് ഞങ്ങൾക്കറിയാം H ന്റെ ചുരുളന് ഏതുതരം നിബന്ധനകളാണ് ഉള്ളത് അതിനാൽ ഇവിടെ ചുരുളൻ ഏത് തരത്തിലുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കും വിദ്യാർത്ഥി പിന്നെ ശരി അതിനാൽ ഞാൻ ഇവിടെ ഈ പദപ്രയോഗം ചെയ്യുമ്പോൾ ഞാൻ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ H ഈ രൂപത്തിലുള്ളതാണ് അതിനാൽ അത് കണ്ടുമുട്ടുമ്പോഴെല്ലാം എന്ത് സംഭവിക്കും ഭാഗം എവിടെയായാലും ഇവിടെ നിന്ന് പുറത്തുവരും അതുപോലെ ഈ ഡെറിവേറ്റീവുകൾ നേരിടുമ്പോഴെല്ലാം a ഉം a ഉം ഉണ്ടാകും അതിനാൽ ഡെൽ ക്രോസ് ഇടുന്നത് ഈ ശരിക്ക് തുല്യമായ ഒരു പ്ലെയിൻ തരംഗത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഈ ലളിതവൽക്കരണം ചെയ്യാൻ കഴിയും നിങ്ങളുടെ അണ്ടർഗ്രേഡ് ഇഎം കോഴ്സിൽ ഈ ലളിതവൽക്കരണം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകാം ഒരു പ്ലെയിൻ തരംഗത്തിന് ഇത് വെക്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനുള്ള അവബോധം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇത് കർശനമായി ഓടിക്കാൻ കഴിയും വിദ്യാർത്ഥി അതെ സർ ഇതും കൂടി എനിക്ക് മൈനസ് ഓകെ ആയി എഴുതാം അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും ഒരു വിമാന തരംഗം ശരിയായി തൃപ്തിപ്പെടുത്തുന്ന പദപ്രയോഗമാണിത് അതിനാൽ ഒരു വിമാനം വലത് തിരമാല കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു പദപ്രയോഗം അപ്പോൾ ഇടത് വശം എന്താണ് ഒരു ഡെറിവേറ്റീവ് ഉൾപ്പെട്ടിരിക്കുന്നു വലതുഭാഗം എന്താണ് ഇത് H ൽ രേഖീയമാണോ H ൽ രേഖീയമാണോ പ്രത്യേക ഡെറിവേറ്റീവുകളോ മറ്റെന്തെങ്കിലുമോ ഇല്ല അവിടെ മറ്റു ചില സ്ഥിരാങ്കങ്ങൾ ഉണ്ട് അതിനാൽ 1D യിൽ എനിക്ക് ഉണ്ടായിരുന്ന അതേ ആശയം ഇതാണ് ഒരു പ്ലെയിൻ വേവ് അനുസരിക്കുന്ന പദപ്രയോഗം നിങ്ങൾക്ക് ആനുപാതികമായിരുന്നു അതേ സാഹചര്യം H ന് ആനുപാതികമായി ഇവിടെ സംഭവിക്കാൻ പോകുകയാണ് തീർച്ചയായും കൂടുതൽ വെക്റ്ററുകൾ ഉണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് എന്നാൽ അതിർത്തി കണ്ടെത്തുന്നതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന ആശയം ഇതാണ് അവസ്ഥ ശരി അതിനാൽ നമുക്ക് ഒരു വെക്റ്റർ വലത് വരയ്ക്കാം അതിനാൽ ഇത് എന്റെ കെ വെക്റ്റർ ആണ് അതിനാൽ തിരമാല ഇവിടെ സഞ്ചരിക്കുന്നിടത്തോളം എന്റെ ഇ എച്ച് എന്നിവ ഒരു പ്ലെയ്ൻ തരംഗത്തിന് വലത് ദിശയിലായിരിക്കും അതിനാൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഈ പ്രയോഗം ശരിയാണ് ഇപ്പോൾ നമുക്ക് തിരികെ പോകാം ശരിയെക്കുറിച്ച് വിഷമിക്കേണ്ട ഏത് തരത്തിലുള്ള പദമാണ് എന്ന് നോക്കാം അതിനാൽ നമ്മൾ വിഷമിക്കേണ്ട തരത്തിലുള്ള പദങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഡോട്ട് ചെയ്ത ഭാഗം TM എന്നത് എന്തായാലും എന്റെ തിരഞ്ഞെടുപ്പായിരിക്കും ഈ പ്രയോഗം ശരിയാണ് ഇപ്പോൾ ഈ പദപ്രയോഗം ഇനിപ്പറയുന്ന രീതിയിൽ മാറ്റിയെഴുതാം അതിനാൽ ആ കുരിശിന്റെയും ഡോട്ടിന്റെയും ക്രമം ഞാൻ മാറ്റിയാൽ എനിക്ക് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി നെഗറ്റീവ് അടയാളം നെഗറ്റീവ് അടയാളം അതിനാൽ ഈ പദപ്രയോഗം ഇങ്ങനെയും എഴുതാം എനിക്ക് ഈ ഡോട്ട് പോലെ എഴുതാമോ അതിനാൽ 2 മൈനസ് ചിഹ്നങ്ങൾ വലത് ഡോട്ട് ചെയ്യുക എനിക്ക് അതേ പദപ്രയോഗം ലഭിക്കും അതിനാൽ അത് ആദ്യം ആയിത്തീരുകയും അതിനാൽ n ശരി മധ്യത്തിലേക്ക് വരുന്നു അതിനാൽ ഞാൻ ശരിക്കും വിഷമിക്കേണ്ട ഭാവം ഇവിടെയുള്ള ഈ വ്യക്തിയാണ് അതിനാൽ ഇത് എന്താണ് നമുക്ക് ഈ പദപ്രയോഗം ഇവിടെ വീണ്ടും എഴുതാം അതിനാൽ എനിക്ക് കരുതാവുന്ന ബാക്കിയുള്ളവ അംഗീകരിക്കുന്നതിന് ഒരു ഏകദേശ കണക്ക് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പദമാണിത് അതിനാൽ എനിക്ക് ഇവിടെ എന്തുചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇതാണ് വിശ്വാസത്തിന്റെ ഒരു കുതിച്ചുചാട്ടം എന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഇവിടെയുള്ള എന്റെ അതിർത്തി ഇതാണ് വിമാനത്തിന്റെ തിരമാല ഒരു സാധാരണ സംഭവത്തിൽ അടിച്ചാൽ ഏത് ദിശയിലാണ് ഈ ഡോട്ടഡ് ലൈൻ എന്റെ അതിർത്തി ശരിയാണ് അതിനാൽ ഇതാണ് എന്റെ തരംഗം ഈ പ്രദേശത്തിനകത്താണ് അപ്പോൾ എന്റെ n തൊപ്പി ഏത് വഴിയാണ് അതിനാൽ ഞാൻ പറയുന്നത് എനിക്ക് ഈ ഡോട്ടഡ് ലൈൻ ഉണ്ട് ഇത് കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നാണ് ഇതാണ് കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ ഈ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാന തരംഗമുണ്ട് അത് അതിർത്തിയിൽ തട്ടുന്നത് സാധാരണയായി ഏത് ദിശയാണ് n hat ശരിയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഈ പ്രത്യേക കേസിൽ കൂടെയുള്ളൂ അതിനാൽ അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക കേസിന് വേണ്ടി മാത്രം എനിക്ക് ഇത് മാറ്റിസ്ഥാപിക്കാം ഈ പ്രത്യേക കേസിനായി എനിക്ക് ഇത് എന്ത് എഴുതാനാകും കാരണം എനിക്ക് ഇത് എഴുതാനും ബാക്കിയുള്ളവ ഈ വ്യക്തിയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കാനും കഴിയും അതിനാൽ അതിനാൽ ഒരു തിരമാല അടിക്കുന്നതിന് ഇത് ശരിയാണ് അതിനാൽ ഇത് എന്റെ സാധാരണ എന്തിനാണ് കാരണം ഞാൻ എന്റെ യൂണിറ്റ് വെക്റ്റർ ടിയെ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു അതിനാൽ ഈ അവകാശത്തെ ആർക്കും എതിർക്കാനാവില്ല വിദ്യാർത്ഥി സം ഇല്ല ഇത് ഒരു ഏകീകൃത മാധ്യമത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ അർത്ഥമാക്കുന്നത് എപ്സിലോൺ r ഇവിടെ സ്ഥലത്തിന്റെ ഒരു ഫംഗ്ഷനല്ല എന്തുകൊണ്ടെന്നാൽ ബഹിരാകാശത്തിന്റെ പ്രവർത്തനമല്ലെങ്കിൽ പരിഹാരം ഒരു പ്ലെയിൻ വേവ് ശരിയാണെന്ന് എനിക്ക് സുരക്ഷിതമായി അനുമാനിക്കാം ഒരു ഏകീകൃത മാധ്യമത്തിന് മാക്സ്വെല്ലിന്റെ സമവാക്യം ഈ രൂപത്തിന്റെ ഒരു വിമാന തരംഗ പരിഹാരം നൽകുന്നുവെന്ന് നമുക്കറിയാം വിദ്യാർത്ഥി അതിനാൽ ഇത് അതിർത്തിയിലാണ് ഇത് അതിർത്തിയുടെ അയൽപക്കത്താണ് വിദ്യാർത്ഥി അതായത് വാക്വം ഇത് വാക്വം ആയിരിക്കാം അല്ലെങ്കിൽ അത് വെള്ളം പോലെയുള്ള ഏതെങ്കിലും ഏകതാനമായ മാധ്യമമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ ഒരു റഡാർ തരംഗവും വെള്ളത്തിനടിയിൽ ആന്റിനയും സഞ്ചരിക്കുന്നതായി നമുക്ക് പറയാം അതിനാൽ ഇത് ജലത്തിന്റെ ഏകതാനമായ എപ്സിലോണാണ് അത് എന്തായാലും പക്ഷേ ഞാൻ സംസാരിക്കുന്നത് ആദ്യം എനിക്ക് ഒരു പ്ലെയ്ൻ വേവ് ഉണ്ടായിരിക്കണം അടുത്തതായി വിമാന തരംഗം സാധാരണയായി അതിർത്തിയിൽ അടിക്കണം അതിനാൽ ഞങ്ങൾ FEM കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ നമുക്ക് ചിതറിക്കിടക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുമെന്നും കുറച്ച് വാക്വം കൊണ്ട് ചുറ്റപ്പെട്ട് കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ അവസാനിപ്പിക്കുമെന്നും ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വിദ്യാർത്ഥി ഇത് അവസാനിപ്പിച്ചു കുറച്ച് വായു ഉണ്ട് വിദ്യാർത്ഥി അതിനാൽ അതാണ് ഇതാണ് അല്ല നമ്മൾ ചെയ്യുന്നത് അതിനാൽ ഇത് ഇവിടെയുള്ള എന്റെ വിമാനമാണെന്ന് പറയാം എന്റെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ വിമാനവുമായി ഇറുകിയതാക്കണോ അതോ കുറച്ചുകൂടി വിപുലീകരിക്കണോ എന്നതാണ് ഇപ്പോൾ ചോദ്യം അതിനാൽ എന്റെ ഡൊമെയ്ൻ ഇതുപോലെയാക്കുക എന്നതാണ് കണക്കുകൂട്ടൽ കാര്യക്ഷമമല്ലാത്തതും എന്നാൽ എളുപ്പമുള്ളതുമായ കാര്യം അതിനാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ ശൂന്യമായ ഇട പ്രദേശം മുഴുവൻ എനിക്ക് വിവേചനാധികാരം നൽകേണ്ടതുണ്ട് അത് ഞാൻ നൽകുന്ന ഒരു വിലയാണ് അത് ചെയ്യുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് ഞങ്ങൾ പിന്നീട് വരാം എന്നാൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിർത്തിയോട് അടുത്ത് എവിടെയെങ്കിലും നോക്കുമ്പോൾ അതിന്റെ സ്വതന്ത്ര ഇടം മാക്സ്വെല്ലിന്റെ സമവാക്യം സ്പേസ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഹോമോജീനിയസ് സ്പേസിലെ ഓരോ പോയിന്റിലും തൃപ്തിപ്പെടുത്തണം അതിനാൽ ഈ വിമാന തരംഗം സാധാരണയായി അതിർത്തിയിൽ അടിക്കുകയാണെങ്കിൽ ഈ പദപ്രയോഗം ശരിയാണ് അതിനാൽ ഇതിനെയാണ് നിങ്ങളുടേത് എന്ന് വിളിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ റേഡിയേഷൻ അതിർത്തി അവസ്ഥ അല്ലെങ്കിൽ 1st ഓർഡർ എന്ന് വിളിക്കുന്നു വിദ്യാർത്ഥി അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അതിർത്തി അത് ഏറ്റവും പുറത്താണ് അതിരുകളില്ല ഏറ്റവും പുറത്തുള്ള അതിർത്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുറത്തുള്ള അതിർത്തി ആഗിരണം ചെയ്യുന്ന അതിർത്തി അവസ്ഥ ശരിയാണ് വിദ്യാർത്ഥി എന്തുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സൂക്ഷിക്കുന്നത് വിദ്യാർത്ഥി അല്ല ഞങ്ങൾ എന്തിനാണ് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് സൂക്ഷിക്കുന്നത് എന്നതാണ് ചോദ്യം വിദ്യാർത്ഥി അല്ല എന്തിനാണ് നമ്മൾ r മായി ബന്ധപ്പെട്ടിരിക്കുന്നത് സമയം കാണുക 1618 ശരി കാരണം ബഹിരാകാശത്തിന്റെ ഒരു പ്രവർത്തനമാണെങ്കിൽ സാങ്കേതികമായി പറഞ്ഞാൽ എനിക്ക് അവിടെ പരിഹാരം പോലെയുള്ള ഒരു വിമാന തരംഗം ലഭിച്ചേക്കില്ല അതിനാൽ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ഏകദേശ കണക്ക് ശരിയായിരിക്കില്ല അതിനാൽ ഞാൻ ഇവിടെ എന്താണ് അതിനാൽ വിശ്വാസത്തിന്റെ വലിയ കുതിച്ചുചാട്ടം എന്റെ വലതുവശത്ത് എല്ലായിടത്തും ഈ പദപ്രയോഗം ആയിരിക്കും അതിനാൽ RHS ന്റെ ദുർബലമായ രൂപത്തിൽ പകരം വയ്ക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് H ന്റെ എപ്സിലോൺ r ചുരുളിൽ Tm dot n hat 1 ഉണ്ടായിരുന്നു മറ്റെന്താണ് dl ഇതാണ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഇതാണ് കൃത്യമായ രൂപം ഇപ്പോൾ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുന്നത് ഈ മുഴുവൻ പദപ്രയോഗത്തെയും ഡോട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാണോ വിദ്യാർത്ഥി ഇല്ല ഉത്തരം ഇല്ല എപ്പോഴാണ് അത് ശരിയാകാത്തത് വിദ്യാർത്ഥി കാരണം അത് ശരിയല്ല അതിനാൽ തരംഗത്തിന്റെ വ്യാപനത്തിന്റെ ദിശ തുല്യമല്ലാത്തപ്പോൾ ആദ്യത്തെ കാര്യം ശരിയല്ല ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെയുള്ള ഈ വിമാനം നോക്കുകയാണെങ്കിൽ സംഭവ തരംഗം ഇടതുവശത്ത് നിന്ന് ഇതുപോലെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാം അത് ഈ വിമാനത്തിൽ ഇവിടെ തട്ടിയെന്നും തിരമാല ഈ ദിശയിലേക്ക് വലത്തേക്ക് നീങ്ങുമെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇപ്പോൾ ഇവിടെയുണ്ട് തരംഗം സാധാരണഗതിയിൽ അടിക്കുന്നില്ല പക്ഷേ ഞാൻ എന്ത് ഏകദേശമാണ് ചെയ്യുന്നത് എല്ലാം സാധാരണ പോലെയാണ് ഞാൻ ഊഹിക്കുന്നത് അതിനാൽ പക്ഷേ ഞാൻ ഇപ്പോഴും ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നു അതിനാൽ വളരെ ലളിതമായ ഒരു അതിർത്തി വ്യവസ്ഥയുടെ സൌകര്യത്തിനായി ഞാൻ നൽകുന്ന വിലയാണിത് ഇവിടെ ഞാൻ എഴുതിയ ഈ പ്രയോഗം നടപ്പിലാക്കാൻ വളരെ ലളിതമാണ് സാധാരണ സംഭവങ്ങളിൽ മാത്രമേ ഇത് കൃത്യമാകൂ എന്നതാണ് പ്രശ്നം അതിനാൽ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ വലുതും വലുതുമായ വലത് ആക്കുകയാണെങ്കിൽ അതിനാൽ ഇത് കൂടുതൽ കൂടുതൽ കൃത്യമാവുന്നു കാരണം തിരമാലകൾ കൂടുതലോ കുറവോ എത്താൻ തുടങ്ങും സാധാരണഗതിയിൽ വളരെ വലിയ ഒരു വൃത്തത്തെ കുറിച്ച് ചിന്തിക്കും അത് ഒരു പരിമിതമായ വസ്തുവിനെ അനുമാനിക്കുമ്പോൾ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ അതിനാൽ സാധാരണ അല്ലാത്തത് എന്ത് സംഭവിച്ചാലും അതിന് എന്ത് സംഭവിക്കും ഈ അതിർത്തി വ്യവസ്ഥ കൃത്യമല്ലാത്തതിനാൽ ഒരു ഗണിത പ്രതിഫലന അവകാശം ഉണ്ടാകും അതിനാൽ എന്താണ് സംഭവിക്കുക ഇത് ഇതുപോലെ ഹിറ്റാകുകയും ഏകദേശ കണക്ക് കാരണം ചില വഴികൾ പ്രതിഫലിക്കുന്ന വാക്വം ലഭിക്കുകയും ചെയ്യും ഞാൻ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അനിവാര്യമാണ് അതിനാൽ ഇതാണ് അതിനാൽ ഞാൻ അത് വിളിച്ചു വിദ്യാർത്ഥി ഒന്നാം ഓർഡർ ഒന്നാം ഓർഡർ അബ്സോർബിംഗ് ബൌണ്ടറി അവസ്ഥ ശരി പുറത്തേക്ക് പോകുന്ന എല്ലാറ്റിനെയും ആഗിരണം ചെയ്യുന്നതായി കാണപ്പെടുന്നതിനാൽ അതിനെ ആഗിരണം ചെയ്യുന്ന അതിർത്തി അവസ്ഥ എന്ന് വിളിക്കുന്നു വിദ്യാർത്ഥി ഒന്നും പ്രതിഫലിപ്പിക്കുന്നില്ല ഒന്നും പ്രതിഫലിക്കുന്നില്ല അതിനാൽ അതിനെ അബ്സോർബിംഗ് ബൌണ്ടറി അവസ്ഥ റൈറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് തുല്യമല്ലാത്തപ്പോൾ ശരിയല്ല ഇതിൽ മറ്റെന്താണ് ശരിയല്ല ശരി ഇതാണ് പ്രധാന കാര്യം അതിനാൽ ഇത് സംഖ്യാപരമായ പ്രതിഫലനത്തിലേക്ക് നയിക്കുന്നു അതിനാൽ വലിയ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ അങ്ങനെ ആളുകൾ പണിതു അതിനാൽ നിങ്ങൾക്ക് ഈ കെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ അത് ഇവിടെ ചെയ്യില്ലെന്ന് പറയാം എന്നാൽ ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും വിദ്യാർത്ഥി മാറ്റുക വിദ്യാർത്ഥി ആകൃതി വലിപ്പം സാധാരണ സംഭവങ്ങളിൽ എപ്പോഴും പ്രതിഫലനം ലഭിക്കുന്ന ആകൃതിയും വലുപ്പവും മാറ്റുക ഞാൻ പ്രത്യേകിച്ച് ഒരു പൊതു ഉദ്ദേശ്യ സോൾവർ എഴുതുകയാണെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് 0 1 കോണിൽ ഒരു രണ്ടാം ഓർഡർ ബൌണ്ടറി അവസ്ഥ നിങ്ങളെ 2 കോണുകളിൽ 0 ലേക്ക് മാറ്റാൻ നിങ്ങളെ അനുവദിക്കും മൂന്നാം ക്രമം 3 കോണുകളിൽ ഇത് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കും ഗണിതശാസ്ത്ര രൂപം കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാകും ശരി നിങ്ങൾ ഉയർന്ന ഓർഡർ ബൌണ്ടറി വ്യവസ്ഥകളുടെ ഗണിതശാസ്ത്ര രൂപത്തിലേക്ക് നോക്കുമ്പോൾ 1st ഓർഡർ ബൌണ്ടറി വ്യവസ്ഥകളിൽ ഉറച്ചുനിൽക്കുകയും എന്റെ ഡൊമെയ്ൻ കുറച്ചുകൂടി വലുതാക്കി വില നൽകുകയും ചെയ്യാം അതിനാൽ ഇത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന അതിർത്തി അവസ്ഥയാണ് ശരി അതിനാൽ നിങ്ങൾ ഇത് എഴുതുന്ന നിങ്ങളുടെ ആദ്യ കോഡ് ഇത് നടപ്പിലാക്കുന്നു അതിന് മുകളിൽ അത് പ്രവർത്തിക്കുന്നു തുടർന്ന് നിങ്ങൾ ഹയർ ഓർഡർ ബൌണ്ടറി വ്യവസ്ഥ നമ്പർ നടപ്പിലാക്കാൻ ശ്രമിക്കും അതിനാൽ അബ്സോർബിംഗ് എന്ന വാക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചെറുതായി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒരു തിരമാല പ്രതിഫലിക്കാതെ പോകാനുള്ള അവസ്ഥയെ ഞങ്ങൾ അനുകരിക്കുകയാണ് അത് ഞങ്ങളുടെ യഥാർത്ഥ പ്രചോദനമായിരുന്നു കാരണം ഈ പദപ്രയോഗം ഒരു പ്ലെയ്ൻ വേവ് അനുസരിച്ചുള്ള പദപ്രയോഗമായിരുന്നു തടസ്സമില്ലാതെ പോകുന്നു ഞാൻ ഒരു ഗണിതശാസ്ത്രം വരയ്ക്കുമ്പോൾ ബൌണ്ടറി അപ്പോൾ ഒന്നും തിരികെ വരില്ല കാരണം അതാണ് ഭൌതികശാസ്ത്രം എനിക്ക് നൽകിയ സമവാക്യം വിദ്യാർത്ഥി അങ്ങനെ അത് അതിനാൽ ആഗിരണം ചെയ്യുന്നതും പ്രതിഫലിപ്പിക്കാത്തതുമായ എന്തെങ്കിലും എനിക്ക് ഒരു തികഞ്ഞ അബ്സോർബർ ഉണ്ടെന്ന് കരുതുന്നത് പോലെയാണ് അത് ചെയ്യുന്നത് അതിനാൽ ചില ആളുകൾ ഇതിനെ ആഗിരണം ചെയ്യുന്ന അതിർത്തി അവസ്ഥ എന്ന് വിളിച്ചു വിദ്യാർത്ഥി അവർ പറയും അനുസരിച്ചു പുറത്തുള്ളതൊന്നും നിങ്ങൾക്കറിയില്ല ഒന്നും തിരികെ വന്നില്ല ഒന്നും തിരിച്ചു വന്നില്ല അതിനാൽ ഈ നിരീക്ഷകനു വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് കരുതി ഡൊമെയ്നിനുള്ളിൽ ഇരിക്കുന്നത് ശരിയാണ് ഒരു തിരമാല പോയത് ഒരിക്കലും തിരികെ വന്നില്ല അതിനെ കുറിച്ചുള്ള ഒരു ചിന്താരീതി എന്താണെന്ന് ശരിയായി ഉൾക്കൊള്ളുന്നു അതിനാൽ അതിർത്തി അവസ്ഥയെ ആഗിരണം ചെയ്യുന്ന വാക്ക്